എനർജി റിലീസ് റേറ്റിനെക്കുറിച്ചുള്ള ചർച്ച തുടരാം വളരെ ഉപയോഗപ്രദമായ ഒരു ആശയമാണ് നമ്മൾ പ്രാഥമികമായി പൊട്ടുന്ന സോളിഡിനായി വികസിപ്പിച്ചെടുത്തത് വാസ്തവത്തിൽ ഈ ക്ലാസ്സിൽ ഉയർന്ന കരുത്തുറ്റ ഡക്റ്റൈൽ അലോയ്കൾക്കായി നമ്മൾ ഈ ആശയം വിപുലീകരിക്കും എന്നാൽ അതിലേക്ക് പോകുന്നതിനുമുമ്പ് ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന് നമ്മൾ ചർച്ച ചെയ്തതിന്റെ ചില വശങ്ങളും ചില പ്രതിഭാസങ്ങൾ മനസിലാക്കാൻ നമ്മൾ അത് എങ്ങനെ ഉപയോഗിച്ചുവെന്നും പരിശോധിക്കാം ആദ്യത്തേതും പ്രധാനവുമായത് നിങ്ങൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കണക്കാക്കിയ ഒടിവ് ശക്തി അനന്തമായ പ്ലേറ്റിലെ ഒരു കേന്ദ്ര വിള്ളലാണ് ഒരു സൈസ് ഇഫക്റ്റിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഗ്ലാസ് നാരുകളിലെ പരീക്ഷണം നമ്മൾ പരിശോധിച്ചു അനന്തമായ പ്ലേറ്റിനായി വികസിപ്പിച്ച ഫലം നമ്മൾ ഉപയോഗിച്ചു ഗ്ലാസിൽ പ്രയോഗിക്കുകയും തുടർന്ന് ബൾക്ക് ഗ്ലാസിന്റെ പ്രശ്നത്തിന് കാരണമാകുന്ന ഏറ്റവും കുറഞ്ഞ വിള്ളൽ വലുപ്പം എന്താണെന്ന് കണക്കാക്കുകയും ചെയ്തു ഗ്ലാസ് ഫൈബറിൽ നിങ്ങൾ കാണുന്ന കനം ഒരു പരിഹാരമായി നിങ്ങൾ വികസിപ്പിച്ചതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര വിള്ളൽ ഉള്ള അനന്തമായ പ്ലേറ്റിനായിരുന്നു നമ്മൾ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു കാരണം ഫലങ്ങൾ നമുക്ക് ലഭിച്ചതെന്തും നമ്മൾ കണ്ട തരത്തിലുള്ള സംഭവവികാസങ്ങളുമായി യോജിക്കുന്നു അതിനാൽ ഏകദേശ മൂല്യങ്ങൾ ശരിയാണ് കാരണം നിങ്ങൾ കൃത്യമായ മൂല്യങ്ങളേക്കാൾ വലുപ്പത്തിന്റെ ക്രമം നോക്കുകയാണ് പക്ഷേ ആളുകൾ ഗ്രിഫിത്തിന്റെ സിദ്ധാന്തത്തിന്റെ വികാസത്തെക്കുറിച്ച് മറ്റ് ചില എതിർപ്പുകളും ഉന്നയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആളുകൾ എത്തിയത് എന്താണെന്ന് നോക്കാം കാരണം നിങ്ങൾ ഒരു പുതിയ പ്രതിഭാസത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ഗണിതശാസ്ത്ര മോഡലിംഗ് ചെയ്യേണ്ടിവരും കൂടാതെ ഗണിതശാസ്ത്ര മോഡലിംഗ് അവശ്യ സവിശേഷതകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് നമുക്ക് അതിന്റെ എല്ലാ വശങ്ങളും പകർത്താൻ കഴിയില്ല കാരണം നിങ്ങൾ എല്ലാ വശങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ മുഴുവൻ ഗണിതശാസ്ത്ര വിശകലനവും വളരെ സങ്കീർണ്ണമാകും അതിനാൽ നമുക്ക് ചില എഞ്ചിനീയറിംഗ് ഏകദേശങ്ങൾ നടത്തേണ്ടതുണ്ട് ഇവയിൽ ചിലത് ആളുകൾ ചോദ്യം ചെയ്തു ഗ്രിഫിത്ത് സിദ്ധാന്തത്തിലെ ബുദ്ധിമുട്ടുകൾ ഗ്രിഫിത്ത് സിദ്ധാന്തത്തിലെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്ലേറ്റിലെ സമ്മർദ്ദ ഊർജ്ജം കണക്കാക്കുമ്പോൾ ഉപരിതല പിരിമുറുക്കം കാരണം ഗ്രിഫിത്ത് സമ്മർദ്ദങ്ങളെ അവഗണിച്ചുവെന്ന് 1968 ൽ ഗുഡിയർ ചൂണ്ടിക്കാട്ടി നോക്കൂ ഗ്രിഫിത്ത് സിദ്ധാന്തം മുഴുവനും തിരിച്ചറിഞ്ഞാൽ ഉപരിതലങ്ങളുടെ രൂപീകരണത്തിന് നിങ്ങൾക്ക് ഊർജ്ജം ആവശ്യമാണ് ഉപരിതല ഊർജ്ജം വളരെ ചെറുതാണെന്നും നമ്മൾ പരിശോധിച്ചു എന്നാൽ നിങ്ങൾ ഒരു ഗണിതശാസ്ത്ര വീക്ഷണകോണിൽ നോക്കുകയാണെങ്കിൽ ഉപരിതല ഊർജ്ജമുണ്ടെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞുകഴിഞ്ഞാൽ ഉപരിതല ഊർജ്ജം ഉപരിതല പിരിമുറുക്കത്തിന് സമാനമാണ് അതിനാൽ നിങ്ങൾക്ക് ഉപരിതലങ്ങളിൽ പിരിമുറുക്കമുണ്ട് അതിനാൽ വിശകലനത്തിനായി ഇത് കണക്കാക്കേണ്ടതുണ്ട് ഇത് വളരെ ചെറുതായിരിക്കാം അത് പ്രസക്തമാണോ അല്ലയോ എന്ന് നമ്മൾ കാണും എന്നാൽ ഇത് വളരെ സാധുവായ ഒരു എതിർപ്പാണ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഉപരിതല ഊർജ്ജത്തിന്റെ നിലനിൽപ്പ് ഉപരിതല പിരിമുറുക്കത്തിന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു അതിർത്തി മൂല്യ പ്രശ്നത്തിൽ ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഉപരിതല പിരിമുറുക്കം കാരണം ഇത് ഒരു സാധാരണ ട്രാക്ഷനായി ദൃശ്യമാകും വാസ്തവത്തിൽ ആളുകൾ ഇത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും അവരുടെ വ്യായാമം ചെയ്യുകയും ചെയ്തു 1975 ൽ രാജപക്സെ ഇത് ചെയ്തു പ്രായോഗിക സമ്മർദ്ദങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉപരിതല ഊർജ്ജ പദത്തിന്റെ സംഭാവന നിസാരമാണെന്ന് അദ്ദേഹം ഒടുവിൽ നിഗമനം ചെയ്തു അതിനാൽ ഇത് മതിയായ ന്യായമാണ് ഒരു എതിർപ്പ് ഉയർന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തി ഒടുവിൽ നിഗമനം ഇത് ശരിക്കും വളരെയധികം ബാധിക്കുന്നില്ല നമുക്ക് മുന്നോട്ട് പോകാം പിന്നീട് 1985 ൽ കണ്ണിനെൻ രാജപക്സെയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും ഒടിവുണ്ടാക്കാനുള്ള ശക്തി നിർണ്ണയിക്കുകയും ചെയ്തു രാജപക്സെ ചില ഘട്ടത്തിൽ നിർത്തിയത് കാണുക സൈദ്ധാന്തിക ശക്തി ഫ്രാക്ചർ ശക്തിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നതിന് നമ്മൾ ഒടിവ് ശക്തി കണക്കാക്കി നമ്മൾ ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അന്തർലീനമായ കുറവുകളുടെ സാന്നിധ്യമായിരുന്നു കാരണം അതിനാൽ പുതിയ ഫോർമുലേഷൻ പരിശോധിക്കുന്നത് വിവേകപൂർണ്ണമാണ് ഒടിവിന്റെ ശക്തി എങ്ങനെ കാണപ്പെടും രണ്ടും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ടോ ഇത് യഥാർത്ഥത്തിൽ ചെയ്തത് കണ്ണിനെൻ ആണ് ഒടിവുണ്ടാക്കുന്ന ശക്തിയുടെ ആവിഷ്കാരം ഈ അളവിലുള്ളതാണെന്ന് അദ്ദേഹം കണ്ടെത്തി സിഗ്മ എഫ് "052 ഗുണിക്കണം E ഗുണിക്കണം ഗാമ s ഹരിക്കണം a" യുടെ അര മടങ്ങിനു തുല്യമാണ് വാസ്തവത്തിൽ ഇത് ഒടിവ് ശക്തി കണക്കാക്കിയതിനേക്കാൾ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കാസ്റ്റുചെയ്യുന്നത് ഇത് എങ്ങനെ പുനക്രമീകരിക്കാമെന്ന് നമ്മൾ വീണ്ടും നോക്കും "2 ഹരിക്കണം പൈ E ഗാമ s ഹരിക്കണം a" യുടെ അര മടങ്ങ് എന്ന് എക്സ്പ്രെഷൻനെ നമ്മൾ നോക്കും നിങ്ങൾ 2 ഹരിക്കണം പൈ പുറത്തെടുക്കുകയാണെങ്കിൽ മൂല്യം 0 80 ആണ് അതിനാൽ ഇത് ഈ 0 52 ന് വളരെ അടുത്താണ് ഇത് അകലെയല്ല മാഗ്നിറ്റ്യൂഡിന്റെ ക്രമം സമാനമാണ് അതിനാൽ ഉപരിതല പിരിമുറുക്കം കാരണം സാധാരണ ട്രാക്ഷൻ അവഗണിക്കുന്നത് അനുവദനീയമാണ് കാരണം നമ്മൾ വളരെ സങ്കീർണ്ണമായ ഒരു പ്രശ്നമാണ് നോക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൂപ്പ് സ്ട്രെസ് പ്രശ്നം നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഹൂപ്പ് സ്ട്രെസ് അച്ചുതണ്ട് സ്ട്രെസ് എന്നിവയായി p R ഹരിക്കണം t യും p R ഹരിക്കണം 2 t യും ഉണ്ട് നിങ്ങൾ പോയി ധ്രുവീയ കോർഡിനേറ്റുകളിലെ സന്തുലിതാവസ്ഥയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് തൃപ്തികരമല്ല സിഗ്മ R വളരെ ചെറുതാണെന്ന് നിങ്ങൾ കരുതുന്നില്ലെങ്കിൽ അത് സമ്മർദ്ദത്തിന്റെ ക്രമത്തിലാണ് അതിനാൽ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം അതിന് സമാനമായ ഒരു ചർച്ചയാണ് നിങ്ങൾ സംയോജിപ്പിക്കുന്നത് അഭികാമ്യമാണ് പക്ഷേ നിങ്ങൾ സംയോജിപ്പിച്ചാൽ അതിൽ വലിയ വ്യത്യാസമില്ല അത് നമുക്ക് സുഖകരമാണ് പക്ഷേ ഇത് മറ്റൊരു പ്രധാന നിരീക്ഷണത്തിനും കാരണമായി അതിർത്തി മൂല്യ പ്രശ്നം ശരിയായി ഉന്നയിക്കുകയും പരിഹാരം നേടുകയും ചെയ്യാമെങ്കിൽ ഊർജ്ജ ബാലൻസ് വ്യക്തമാക്കേണ്ടതിന്റെ ആവശ്യകത അനാവശ്യമാണ് അതിർത്തി മൂല്യ പ്രശ്നം ശരിയായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണതയിൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നു കാരണം ഊർജ്ജ ബാലൻസ് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ ഒരു സമഗ്ര ചിത്രത്തേക്കാൾ ആഗോള ചിത്രമാണ് നോക്കുന്നത് വാസ്തവത്തിൽ മെറ്റീരിയലുകളുടെ കരുത്തിൽ നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ഇതുപോലുള്ള ചർച്ചകൾ നിങ്ങൾ കാണുമായിരുന്നില്ല ക്ലാസ്സിൽ നമ്മൾ എന്തുചെയ്യും നമ്മൾ സൈദ്ധാന്തിക രീതി വികസിപ്പിച്ചെടുക്കും തുടർന്ന് നമ്മൾ പറയും നമുക്ക് ഫലം ലഭിച്ചു ഒപ്പം ആപ്ലിക്കേഷനുകൾ തുടരുക സൈദ്ധാന്തിക വികസനം സമഗ്രമായ പ്രശ്നമാണോയെന്ന് നമ്മൾ ഒരിക്കലും അന്വേഷിക്കുന്നില്ല അത്തരമൊരു ചർച്ച മുമ്പത്തെ കോഴ്സുകളിൽ ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഫ്രാക്ചർ മെക്കാനിക്സിലെ ഒരു കോഴ്സിൽ നമ്മൾ ഇത് ചെയ്യുന്നത് തുടരുന്നു കാരണം നിങ്ങൾ നോക്കുന്ന പ്രതിഭാസങ്ങൾ വളരെ സങ്കീർണ്ണമാണ് വാസ്തവത്തിൽ വെസ്റ്റർഗാർഡിന്റെ സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ നമ്മൾ അതിർത്തി വ്യവസ്ഥകൾ വ്യക്തമാക്കും എല്ലാ പുസ്തകത്തിലും കാണുന്ന സ്ട്രെസ് ഫീൽഡ് സമവാക്യവും നമുക്ക് ലഭിക്കും എന്നാൽ നമ്മൾ വീണ്ടും പോയി അതിർത്തി വ്യവസ്ഥകൾ ശരിയായി കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും അതിനാൽ ഫ്രാക്ചർ മെക്കാനിക്സിന് വളരെ സവിശേഷമായ ഒന്ന് ഉണ്ട് അതിനാൽ അതിനൊപ്പം ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം ഊർജ്ജ ബാലൻസിന്റെ സവിശേഷത അനാവശ്യമാണെന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനയുടെ അനന്തരഫലമെന്താണ് അതായത് പ്രശ്നത്തിന്റെ ചില വശങ്ങൾ ഊർജ്ജ ബാലൻസ് ഉപയോഗിച്ച് പൂർണ്ണമായി പിടിച്ചെടുത്തിട്ടില്ല മാത്രമല്ല ഇത് ഫ്രാക്ചർ സിദ്ധാന്തത്തിന്റെ ചില വശങ്ങളെ ബാധിക്കുകയും ചെയ്യും നിങ്ങൾ കണ്ടെത്തുന്നത് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ ഒടിവുണ്ടാക്കാൻ എനർജി ബാലൻസ് മാനദണ്ഡം ഉപയോഗപ്രദമല്ലെന്ന് ഗ്രിഫിത്ത് തന്നെ കണ്ടെത്തി എന്നാണ് നോക്കൂ നിങ്ങൾ സിദ്ധാന്തം വികസിപ്പിക്കുമ്പോൾ മോഡ് I മോഡ് II മോഡ് III എന്നിവയ്ക്കായി നിങ്ങൾ ഇത് വ്യക്തിഗതമായി വികസിപ്പിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ കയ്യിലുള്ള പ്രശ്നത്തെ ആശ്രയിച്ച് വിവിധ അനുപാതങ്ങളിൽ ഇവയുടെ സംയോജനം നിങ്ങൾക്ക് കണ്ടെത്താം അതിനാൽ നിങ്ങൾ ഒരു ഫ്രാക്ചർ സിദ്ധാന്തം വികസിപ്പിക്കുമ്പോൾ സംയോജിത ലോഡിംഗ് രീതികളും പരിഹരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അതിനാൽ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഗ്രിഫിത്ത് പോലും ശ്രദ്ധിച്ചു എന്നാൽ ഗ്രിഫിത്ത് സിദ്ധാന്തത്തിനെതിരായ ഒരു പ്രധാന എതിർപ്പ് പ്രാഥമികമായി പൊട്ടുന്ന വസ്തുക്കൾക്കാണ് നമ്മൾ ചർച്ച ചെയ്ത മറ്റ് വശങ്ങൾ കൂടുതൽ സൂക്ഷ്മതകളായിരുന്നു ഇവ സൂക്ഷ്മമായ വശങ്ങൾ പോലെയാണ് എന്നിരുന്നാലും ഊർജ്ജ പ്രകാശന നിരക്ക് വളരെ ഉപയോഗപ്രദവും സൌകര്യപ്രദവുമായ ഒരു ആശയമാണ് വാസ്തവത്തിൽ ഒരു ക്ലാസിൽ ഞാൻ ഉന്നയിച്ചു നിങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ഫ്രാക്ചർ മെക്കാനിക്സ് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അത്തരം ചോദ്യങ്ങളിൽ ചിലത് സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഉത്തരം നൽകാൻ ശ്രമിക്കും ഒടിവിന് ആവശ്യമായതും മതിയായതുമായ അവസ്ഥകൾ ഇപ്പോൾ ഗ്രിഫിത്തിന്റെ വിശകലനത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്നു ഒടിവുണ്ടാകാൻ ആവശ്യമായതും മതിയായതുമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യം നമ്മൾ ഉയർത്തുന്നു ഊർജ്ജ പ്രകാശന നിരക്ക് എന്താണെന്ന് നമ്മൾ എല്ലാവരും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മെറ്റീരിയലിൽ അന്തർലീനമായ പ്രതിരോധശേഷിയുണ്ടെന്നും നമ്മൾ പറഞ്ഞു ഈ ഊർജ്ജ പ്രകാശന നിരക്ക് പ്രതിരോധത്തിന് തുല്യമാകുമ്പോൾ അസ്ഥിരതയുടെ പോയിന്റ് സംഭവിക്കുന്നു ഈ സമവാക്യം മോഡ് I GI എന്നിവ RI ന് തുല്യമാണ് മറ്റ് ലോഡിംഗ് മോഡുകൾക്കും സമാനമായവ നിങ്ങൾക്ക് എഴുതാം നിങ്ങൾ ഒരു ഗണിതശാസ്ത്ര ആശയം വികസിപ്പിക്കുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരു അവസ്ഥ പ്രസ്താവിക്കുമ്പോൾ ഈ അവസ്ഥ അത്യാവശ്യമായ ഒരു അവസ്ഥയാണോ വേണ്ട അവസ്ഥയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം നോക്കൂ ഇത് വളരെ പ്രധാനമാണ് ഒരു അവസ്ഥയിലെത്തിയാൽ മാത്രം പ്രശ്ന പ്രസ്താവന പൂർത്തിയായില്ല നിങ്ങൾ അത് അന്വേഷിക്കണം പൊട്ടുന്ന ഒരു വസ്തുവിന്റെ കാര്യം നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ലഭിച്ചതെന്തും മതിയായ അവസ്ഥയാണ് ഉയർന്ന കരുത്തുറ്റ ഡക്റ്റൈൽ മെറ്റീരിയലിനായി നമ്മൾ ഗ്രിഫിത്തിന്റെ വിശകലനം വിപുലീകരിക്കുമ്പോൾ ഇത് അങ്ങനെയല്ല നിങ്ങൾ മറ്റൊരു അവസ്ഥയും നോക്കേണ്ടിവരും അത്ഡോ G ഹരിക്കണം ഡോ a സമം ഡോ R ഹരിക്കണം ഡോ a ആണ് ഈ ചരിവും പൊരുത്തപ്പെടണം അതിനാൽ ഇത് മതിയായ അവസ്ഥ വ്യക്തമാക്കുന്നു ഉയർന്ന ശക്തിയുള്ള ഡക്റ്റൈൽ മെറ്റീരിയലിനായി ഗ്രിഫിത്ത് സിദ്ധാന്തത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കും എന്നാൽ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഐഡന്റിറ്റി പരിശോധിക്കും നിങ്ങൾക്ക് ഏത് ക്ലാസ് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കുകയെന്ന് കണ്ടെത്താനും ശ്രമിക്കുക നമ്മൾ മുമ്പ് ഒരു ഗ്രാഫിക്കൽ പ്രാതിനിധ്യം ശരിക്കും നോക്കിയിട്ടുണ്ട് നമ്മൾ അത് വീണ്ടും നോക്കും ഉപരിതല ഊർജ്ജം ബുദ്ധിമുട്ട് ഊർജ്ജം എന്നിവ വ്യക്തിഗതമായി ആസൂത്രണം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചു കൂടാതെ മൊത്തം ഊർജ്ജവും വരയ്ക്കുന്നു നിങ്ങൾക്ക് ഒരു നിർണ്ണായക വിള്ളൽ നീളം തിരിച്ചറിയാൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നു ഒപ്പം ഒടിവ് അസ്ഥിരതയും സംഭവിക്കുന്നു ഉപരിതല ഊർജ്ജം എന്താണെന്ന് നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുമ്പോൾ ഇത് ഉപയോഗപ്രദമായിരുന്നു നിങ്ങൾ സൈദ്ധാന്തിക ശക്തിയും കണക്കാക്കുമ്പോൾ ഉപരിതല ഊർജ്ജത്തിന്റെ ആവിഷ്കാരത്തെ ഇത്തരത്തിലുള്ള വീക്ഷണം സൈദ്ധാന്തിക ശക്തിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സഹായിച്ചു ഉപരിതല ഊർജ്ജത്തിന്റെ കാര്യത്തിലും അത് വികസിപ്പിച്ചെടുത്തു നിങ്ങൾക്കത് സാമാന്യവൽക്കരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ G R എന്നിവ കണക്കിലെടുക്കുമ്പോൾ വിവേകപൂർണ്ണമാണ് മെറ്റീരിയലിന്റെ അന്തർലീനമായ സ്വത്ത് പൊട്ടുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ R ഉപരിതല ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉപരിതല ഊർജ്ജം എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് സ്ഥിരമായി നിലനിൽക്കുന്നതിനാൽ നമ്മൾ മറ്റൊരു തരത്തിലുള്ള ഗ്രാഫിക്കൽ പ്രാതിനിധ്യം വികസിപ്പിക്കും ഈ അക്ഷങ്ങൾ എങ്ങനെയാണ് ലേബൽ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം പോസിറ്റീവ് x അക്ഷത്തിൽ നിങ്ങൾക്ക് വർദ്ധിച്ചുവരുന്ന വിള്ളൽ വളർച്ചയുണ്ട് നെഗറ്റീവ് x അക്ഷത്തിൽ നിങ്ങൾക്ക് പ്രാരംഭ വിള്ളൽ ഉണ്ട് ഇത് വ്യത്യസ്തമായ കാര്യമാണ് ഇത്തരത്തിലുള്ള ഗ്രാഫുകൾ നിങ്ങൾ മറ്റ് വിഭാഗങ്ങളിൽ ഉപയോഗിക്കില്ല നിങ്ങൾ ഒടിവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത തരം ഗ്രാഫുകൾ അവതരിപ്പിക്കുന്നു Y അക്ഷത്തിൽ ഊർജ്ജം പ്ലോട്ട് ചെയ്യുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു R ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഗാമാ വിമർശനാത്മകമായി കൂടുതൽ ശ്രദ്ധിക്കരുത് യഥാർത്ഥ മൂല്യം എന്താണെന്ന് നമ്മൾ ശരിക്കും അന്വേഷിക്കുന്നില്ല R R എന്താണെന്ന് നിങ്ങൾ നോക്കുന്നു ഒരു പ്രതിരോധമാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇത് സ്ഥിരമായി എടുത്തിട്ടുണ്ട് അതിനാൽ ഇത് ഒരു തിരശ്ചീന രേഖ പോലെയാകും കൂടാതെ ഒരു കേന്ദ്ര വിള്ളൽ ഉപയോഗിച്ച് അനന്തമായ പ്ലേറ്റിന്റെ പ്രശ്നം നോക്കാം നിരന്തരമായ ലോഡിന്റെയും നിരന്തരമായ സ്ഥാനചലനത്തിന്റെയും രണ്ട് കേസുകളും നമ്മൾ പരിശോധിച്ചു സൂക്ഷ്മമായ വ്യത്യാസമുണ്ടായിരുന്നു സ്ഥിരമായ ലോഡിന്റെ കാര്യത്തിൽ രണ്ട് പുതിയ പ്രതലങ്ങളുടെ രൂപീകരണത്തിനുള്ള ഊർജ്ജ ആവശ്യകത ബാഹ്യ ലോഡിൽ നിന്ന് വന്നു അതിന്റെ ഒരു ഭാഗം സിസ്റ്റത്തിന്റെ സമ്മർദ്ദ ഊർജ്ജം വർദ്ധിപ്പിക്കുകയും അതിന്റെ ഒരു ഭാഗം രണ്ട് പുതിയ ഉപരിതലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു സ്ഥിരമായ സ്ഥാനചലനം അല്ലെങ്കിൽ സ്ഥിരമായ പിടിയിലാണെങ്കിൽ അത് ബുദ്ധിമുട്ട് ഊർജ്ജത്തിൽ നിന്നാണ് വരുന്നത് അതിനാൽ വിള്ളൽ വളരുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന്റെ സമ്മർദ്ദ ഊർജ്ജം കുറയുന്നു നമ്മുടെ മുമ്പത്തെ ചർച്ചകളെല്ലാം നമ്മുടെ ശ്രദ്ധ അസ്ഥിരതയുടെ പരിധി വരെ പരിമിതപ്പെടുത്തി നമ്മൾ നോക്കിയിട്ടില്ല G R ന് തുല്യമായ ശേഷം എന്ത് സംഭവിക്കും ഈ രണ്ടിലെ സൂക്ഷ്മമായ വ്യത്യാസം നമ്മൾ നോക്കും അനന്തമായ ഒരു പ്ലേറ്റിനായി നമുക്ക് ലഭിച്ച പദപ്രയോഗം എന്താണ് ഇത് പൈ സ്ക്വയേർഡ് സിഗ്മയെ E കൊണ്ട് ഹരിച്ചതുപോലെയായിരുന്നു അതിനാൽ ഇത് ക്രാക്ക് ദൈർഘ്യത്തിന്റെ ഒരു രേഖീയ പ്രവർത്തനമാണ് അതിനാൽ എനിക്ക് ഒരു ലീനിയർ കർവ് ലഭിക്കാൻ പോകുന്നു ഇത് സമ്മർദ്ദത്തിന്റെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു വിള്ളൽ ദൈർഘ്യത്തിന്റെ പ്രവർത്തനമായി നിങ്ങൾ ആ ഊർജ്ജം പ്ലോട്ട് ചെയ്യുമ്പോൾ അത് വളരെ ചെറുതാണെന്ന് ഞാൻ കരുതുന്നു അത് ഇവിടെ മാത്രമേ ബാധിക്കുകയുള്ളൂ അതിനാൽ എന്തായാലും ഊർജ്ജ ലഭ്യത പ്രതിരോധത്തെക്കാൾ വളരെ താഴെയാണ് അതിനാൽ വിള്ളൽ നിശ്ചലമായിരിക്കും അത് വളരുകയില്ല ഇപ്പോൾ ഞാൻ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു സ്ട്രെസ് മാഗ്നിറ്റ്യൂഡ് സിഗ്മ 1 പോലെയാണ് എന്നിട്ടും സമ്മർദ്ദം നിർണായകമല്ല തന്നിരിക്കുന്ന വിള്ളൽ ദൈർഘ്യത്തിനായി നമ്മുടെ മുമ്പത്തെ എല്ലാ ചർച്ചകളും നിങ്ങൾക്ക് അനുബന്ധമായ ഗുരുതരമായ സമ്മർദ്ദം കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇംഗ്ലിസ് പരിഹാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രിഫിത്ത് സിദ്ധാന്തം ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നത് ഇവിടെയാണ് ഇംഗ്ലിസ് സൊല്യൂഷൻ അലേർട്ട്ഡ് ക്രാക്ക് അപകടകരമാണ് ഇത് വളരെ അസൌകര്യപ്രദമായ ഉത്തരവും നൽകി വളരെ ചെറിയ വിള്ളൽ പോലും വളരെ ചെറിയ ലോഡിന് പോലും ഉയർന്ന സമ്മർദ്ദങ്ങൾ വികസിപ്പിച്ചെടുക്കും നിങ്ങൾ അത് ശരിക്കും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊടികൾ മാത്രമേ ഉണ്ടാകൂ നിങ്ങൾക്ക് ദൃഢമായ ഒരു രൂപവും ഉണ്ടാകില്ല ഗ്രിഫിത്തിന്റെ വിശകലനം മാത്രമാണ് ക്രിട്ടിക്കൽ ക്രാക്ക് ലെങ്ത് എന്ന് വിളിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ക്രാക്ക് ലെങ്ത് എന്ന് വ്യക്തമായി കാണിക്കുന്നത് ഒരു ഗുരുതരമായ സമ്മർദ്ദം ഉണ്ടായിരിക്കണം നമ്മൾ അത്തരത്തിലുള്ള ഒരു പദപ്രയോഗം നോക്കിയിരുന്നു അതിനാൽ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്ട്രെസ് ലെവലുകൾ ഗുരുതരമായ സമ്മർദ്ദത്തിന് താഴെയാകുമ്പോൾ എനർജി ഗ്രാഫ് ഇതുപോലെ കാണപ്പെടും ഇത് ഊർജ്ജ പ്രകാശന നിരക്കിനുള്ളതാണ് ഇപ്പോൾ നമുക്ക് സ്ട്രെസ് ലെവൽ വർദ്ധിപ്പിക്കാം ഇപ്പോൾ സിഗ്മ c1 ആയി എടുത്ത സ്ട്രെസ് ലെവൽ എനിക്കുണ്ട് ഇത് ഒരു ഗുരുതരമായ സമ്മർദ്ദമാണെന്ന് c സൂചിപ്പിക്കുന്നു എന്ത് സംഭവിക്കും ഈ ഗുരുതരമായ സമ്മർദ്ദത്തിന് G യുടെ മൂല്യം R ന് തുല്യമാണ് അതിനാൽ ഇത് അസ്ഥിരതയുടെ പോയിന്റിനെ സൂചിപ്പിക്കുന്നു നിരന്തരമായ ലോഡിന്റെയും നിരന്തരമായ സ്ഥാനചലനത്തിന്റെയും പങ്ക് നമ്മൾ വളരെ നീളത്തിൽ പരിശോധിച്ചു കൂടാതെ രണ്ട് സാഹചര്യങ്ങളിലും വർദ്ധിച്ചുവരുന്ന മൂല്യങ്ങൾ ചെറുതായിരിക്കുന്നിടത്തോളം ഊർജ്ജ ലഭ്യത തുല്യമാണെന്നും പറഞ്ഞു അതിനാൽ നിരന്തരമായ ലോഡിന്റെയും സ്ഥിരമായ സ്ഥാനചലനത്തിന്റെയും രണ്ട് കേസുകളും ഇത് തൃപ്തിപ്പെടുത്തും എന്നാൽ ഇതിനപ്പുറം ഇവ രണ്ടും വ്യത്യസ്തമായിരിക്കും അതും നമ്മൾ നോക്കും ഇതാണ് നിങ്ങൾ ഇവിടെ നോക്കുന്നത് നിരന്തരമായ ലോഡിന് വിള്ളലിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് ഊർജ്ജ ലഭ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കും വിള്ളൽ വളരുന്തോറും ഊർജ്ജം വർദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം വിള്ളൽ പ്രതലങ്ങളുടെ രൂപീകരണത്തിനുള്ള ഊർജ്ജം ബാഹ്യ ജോലികളിൽ നിന്നാണ് വിള്ളൽ പുരോഗമിക്കുമ്പോൾ ബാഹ്യശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ജോലി ലഭിക്കും ഇത് ലഭ്യമാകും സ്ഥിരമായ പിടിയിലാണെങ്കിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം കുറയുന്നു അതിനാൽ ഇത് ഇതുപോലുള്ള ഒരു രൂപം എടുക്കും അതിനാൽ നമ്മുടെ ഭാവിയിലെ എല്ലാ ചർച്ചകൾക്കും നമ്മൾ ഈ നിരന്തരമായ ഭാരം നിലനിർത്തും ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് വിള്ളൽ പ്രതലങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ ഊർജ്ജം എനിക്കുണ്ടെന്ന് കരുതുക ഇത് വേഗത വർദ്ധിപ്പിക്കുന്നതിന് വിള്ളലിനെ പ്രേരിപ്പിക്കും അതിനാൽ സംഭവിക്കുന്നത് വിള്ളൽ ആരംഭിക്കുകയും അത് ഒരു വേഗത കൈവരിക്കുകയും ചെയ്യും ഫോട്ടോഇലാസ്റ്റിക് പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് ആളുകൾ എല്ലാം പഠിച്ചു ഇനി നമുക്ക് മറ്റൊരു കേസ് നോക്കാം ഇവിടെ a1 ന്റെ പ്രാരംഭ വിള്ളൽ ദൈർഘ്യത്തിനായി ഞാൻ ഗ്രാഫ് വരച്ചിട്ടുണ്ട് എനിക്ക് ദൈർഘ്യമേറിയ ഒരു വിള്ളൽ ഉണ്ടെന്ന് കരുതുക എനിക്ക് എങ്ങനെ ഗ്രാഫിക്കൽ പ്രാതിനിധ്യം ഉപയോഗിക്കാം നമ്മൾ ഇതിനകം ശ്രദ്ധിച്ചു നെഗറ്റീവ് എക്സ് ആക്സിസിൽ ഞാൻ പ്രാരംഭ ക്രാക്ക് ഇട്ടു അതിനാൽ ഞാൻ ഈ ഘട്ടത്തിൽ നിന്ന് എന്റെ ഗ്രാഫ് ആരംഭിക്കും എനിക്ക് ക്രാക്ക് നീളം ഉണ്ടെങ്കിൽ ഇത് വളരെ കൂടുതലാണ് അതാണ് ഞാൻ ആരംഭിക്കുന്നത് അതിനാൽ അതിൽ നിന്ന് ഊർജ്ജ പ്രകാശന നിരക്ക് ആസൂത്രണം ചെയ്യാൻ നമുക്ക് ആരംഭിക്കാം അതിനാൽ ഇത് എന്താണ് കാണിക്കുന്നത് ഈ രണ്ട് ഗ്രാഫുകളും സമാന്തരമാണ് സ്ട്രെസ് ലെവലുകൾ ഒന്നുതന്നെയാണെന്നും ഇത് ഒരു ചെറിയ വിള്ളലിന് ഈ സ്ട്രെസ് ലെവലിൽ ഒടിവുണ്ടായില്ലെന്നും ഇത് കാണിക്കുന്നു അതേ സ്ട്രെസ് ലെവലിനായി ഇത് ഒരു നീണ്ട വിള്ളലിന് ഗുരുതരമായ സമ്മർദ്ദമായി മാറുന്നു ഒടിവ് ആരംഭിച്ചതിന് ശേഷം നിരന്തരമായ ലോഡിനും നിരന്തരമായ സ്ഥാനചലനത്തിനും ഗ്രാഫുകൾ വ്യത്യസ്തമായിരിക്കും അതിനാൽ അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇവിടെ പരാമർശിക്കുന്നത് ഗുരുതരമായ സ്ട്രെസ് സിഗ്മ c2 സിഗ്മ c1 നെക്കാൾ കുറവാണ് എന്നതാണ് ഇത് നമ്മുടെ കോമൺസെൻസിനെ ആകർഷിക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരു നീണ്ട വിള്ളലിന് ഒടിവ് ആരംഭിക്കുന്നതിന് ഒരു ചെറിയ സമ്മർദ്ദം ആവശ്യമാണ് ശേഷിക്കുന്ന ശക്തി രേഖാചിത്രത്തിലും നമ്മൾ അത് പരിശോധിച്ചിട്ടുണ്ട് ഒടിവ് പ്രക്രിയയിൽ ഉൾപ്പെടുന്ന ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പുതിയ രൂപമാണിത് നമ്മൾ ഊർജ്ജ പ്രകാശന നിരക്കും പ്രതിരോധവും നോക്കുന്നു ഈ ചർച്ചകളെല്ലാം പൊട്ടുന്ന വസ്തുക്കളിൽ ഒതുങ്ങുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ R സ്ഥിരമായി നിലനിർത്തുന്നതിന്റെ കാരണം മറ്റ് ചില പ്രശ്നങ്ങളും നമ്മൾ പരിശോധിക്കും ഇപ്പോൾ സ്ഥിരമായ ലോഡിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജ ലഭ്യതയുണ്ട് അതിനാൽ വിള്ളൽ വേഗത കൈവരിക്കുമെന്നാണ് ഇതിനർത്ഥം ഞാൻ സൂചിപ്പിച്ചതെന്തും ഇവയെ ഇവിടെ പോയിന്റുകളായി സംഗ്രഹിച്ചിരിക്കുന്നു നമ്മൾ ഇത് വീണ്ടും നോക്കുകയും അടുത്ത സ്ലൈഡിലേക്ക് പോകുകയും ചെയ്യും പൊട്ടുന്ന വസ്തുക്കളിൽ വിള്ളൽ സ്ഥിരമായ ലോഡിനും നിശ്ചിത പിടിയിലും വിള്ളൽ വളർച്ച ആരംഭിക്കുന്നതിനുള്ള അവസ്ഥ ഒന്നുതന്നെയാണ് ഗ്രാഫ് കൊണ്ട് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തി വിള്ളൽ അസ്ഥിരതയുടെ ഘട്ടത്തിൽ ഊർജ്ജ പ്രകാശന നിരക്ക് രണ്ട് സാഹചര്യങ്ങളിലും തുല്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ഥിരമായ പിടിയിൽ ബാഹ്യ ലോഡ് പ്രവർത്തിക്കാത്തതിനാൽ വിള്ളൽ പുരോഗമിക്കുമ്പോൾ ഊർജ്ജ പ്രകാശന നിരക്ക് കുറയുന്നു കൂടുതൽ ചർച്ചയ്ക്ക് നിരന്തരമായ ലോഡ് കേസ് പരിഗണിക്കാം ഇവിടെ ലഭിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഊർജ്ജ ലഭ്യത വർദ്ധിക്കുന്നത് വിള്ളൽ വേഗത വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു ഏതൊരു മെറ്റീരിയലിലും വിള്ളലുകൾക്ക് ഒരു പ്രത്യേക പരമാവധി വേഗത മാത്രമേ കൈവരിക്കാനാകൂ എന്നും നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ മെറ്റീരിയലിലെ റെയ്ലേ തരംഗ വേഗതയാണ് അത് നിർണ്ണയിക്കുന്നത് അതിനപ്പുറം വിള്ളലുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല ഇത് വേഗത വർദ്ധിപ്പിക്കും പക്ഷേ പരമാവധി വേഗത റെയ്ലെയ് തരംഗ വേഗതയാൽ പരിമിതപ്പെടുത്തും നമ്മൾ കണ്ട ഉദാഹരണം എന്താണെന്ന് വീണ്ടും നോക്കാം അതിനുമുമ്പ് ചലനാത്മക ഫോട്ടോഇലാസ്റ്റിറ്റിയെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ പരീക്ഷണവും നമ്മൾ പരിശോധിക്കും ഈ ഗാമയെ നിങ്ങളുടെ ഉപരിതല ഊർജ്ജവുമായി ആശയക്കുഴപ്പത്തിലാക്കരുത് ഈ ഗ്രാഫ് കാണിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് x അക്ഷത്തിൽ സമ്മർദ്ദ തീവ്രത ഘടകമുണ്ട് Y അക്ഷത്തിൽ ക്രാക്ക് വേഗത പരാമർശിക്കുന്നു ഒരു ഡോട്ട് പരാമർശിക്കുന്നു നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത മാതൃകകളിൽ നിന്നുള്ള ഡാറ്റയുണ്ട് എന്താണ് ചെയ്യുന്നത് വിള്ളൽ പ്രചരിപ്പിക്കാൻ അനുവദിച്ചിരിക്കുന്നു അതിനാൽ പരീക്ഷണാത്മക അളവുകളിൽ നിന്ന് K യുടെ മൂല്യവും വേഗതയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു K വേഴ്സസ് വേഗതയുടെ ഒരു ഫംഗ്ഷനായി നിങ്ങൾ ആ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ സ്വഭാവത്തിന്റെ ആകൃതി എടുക്കുന്നു ഇത് ഗാമാ പോലെ തോന്നുന്നു അതിനാൽ ഈ ഗാമയെ ഉപരിതല ഊർജ്ജമായി തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മൾ ഗാമയെ ഉപരിതല ഊർജ്ജമായി ഉപയോഗിച്ചു ഫ്രാക്ചർ സാഹിത്യത്തിൽ പ്രതീകാത്മകത ചിലപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കുന്നു ഉദാഹരണത്തിന് അവർ കട്ടിയുള്ളതിനായി B ഉപയോഗിക്കുന്നു ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല മറ്റൊരു കാര്യം നിങ്ങൾ ഫാറ്റീഗ് നോക്കുകയാണെങ്കിൽ സ്ട്രെസ് റേഷ്യോയ്ക്ക് R ചിഹ്നം ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ ഫാറ്റീഗും ഒടിവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും അവർ ചെറുത്തുനിൽപ്പിനെ R ആയി രൂപപ്പെടുത്തി അതിനാൽ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് ചിഹ്നം എന്താണ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങൾ ചിഹ്നം നോക്കുകയാണെങ്കിൽ സന്ദർഭത്തിന് പുറത്ത് നിങ്ങൾക്ക് അത് വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാം അതിനാൽ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ആ പോയിന്റുകൾ നൽകുമ്പോഴാണ് ഇത് ഒരു പ്രയാസകരമായ പരീക്ഷണമാണ് ഈ കോഴ്സിന്റെ ഭാഗമായി സമയം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ K യുടെ മൂല്യം കണക്കാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഫോട്ടോഇലാസ്റ്റിക് ഡാറ്റയിൽ നിന്ന് K എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ നിങ്ങളോട് പറയും അതിനാൽ ചലനാത്മക ഫോട്ടോഇലാസ്റ്റിക് പരീക്ഷണങ്ങളിൽ നിന്ന് വേഗതയുടെയും K യുടെയും അളവ് നേടാൻ അവർക്ക് കഴിഞ്ഞു ഇത് എന്താണ് കാണിക്കുന്നത് മൂല്യം K1C യുടെ നിർണായക മൂല്യത്തിൽ എത്തുമ്പോൾ വിള്ളൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട് ഇത് ഊർജ്ജ പ്രകാശന നിരക്ക് അധ്യായമാണെങ്കിലും സമ്മർദ്ദ തീവ്രത ഘടകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല സമ്മർദ്ദ തീവ്രത ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാഫിനെ പ്രതിനിധീകരിക്കുന്നത് K യുടെ ഒരു പ്രത്യേക മൂല്യത്തിൽ വിള്ളൽ ശാഖ ആരംഭിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുകയും വിജയകരമായ ബ്രാഞ്ചിംഗ് കുറച്ച് സമയത്തിനുശേഷം കാണുകയും ചെയ്യും അതിനാൽ ആളുകൾ പരീക്ഷണങ്ങൾ നടത്തി വിള്ളലിന് പരമാവധി വേഗത മാത്രമേ നേടാനാകൂ എന്ന് പരിശോധിച്ചു ഒരു വേഗതയ്ക്കപ്പുറം അത് ശാഖകളായിരിക്കണം അതിനാൽ ഇത് നിരീക്ഷിക്കപ്പെടുന്നു കൽതോഫ് നടത്തിയ പരീക്ഷണത്തെ നമ്മൾ വീണ്ടും പരിശോധിക്കും ഇവിടെ വിള്ളൽ നിശ്ചിത വേഗതയിൽ നീങ്ങുന്നു വേഗത വർദ്ധിക്കുന്നു അതിനുശേഷം ശാഖകൾ പൊട്ടിക്കുക ഇത് നിങ്ങൾ മുമ്പ് കണ്ടു ഇപ്പോൾ ഊർജ്ജ പ്രകാശന നിരക്കും പ്രതിരോധവും എന്ന് നിങ്ങൾ മനസിലാക്കിയ എന്തിനെക്കുറിച്ചും നമ്മുടെ അറിവ് ഉപയോഗിച്ച് വിശദമായ ഒരു വിശദീകരണം നൽകാൻ കഴിയുമോ നമുക്ക് കണ്ടെത്താനും കഴിയണം നമ്മൾ കണ്ട ഗ്രാഫുകളെ അടിസ്ഥാനമാക്കി ക്രാക്ക് ബ്രാഞ്ചിംഗ് വിശദീകരിക്കാൻ നമുക്ക് കഴിയുമോ ഈ ആനിമേഷൻ നോക്കൂ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരു വിള്ളലുണ്ട് ഒപ്പം y അക്ഷത്തിൽ ഞാൻ R 2 തവണ R 3 തവണ R എന്നിവയ്ക്ക് സമാനമായ ഒരു തിരശ്ചീന രേഖ വരച്ചിട്ടുണ്ട് കൂടാതെ പ്രാരംഭ വിള്ളൽ a ആയിരിക്കട്ടെ പോസിറ്റീവ് x അക്ഷത്തിൽ നിങ്ങൾ ഡെൽറ്റ പ്ലോട്ട് ചെയ്യുന്നു അതിനാൽ സ്ട്രെസ് ലെവലുകൾ വേണ്ടത്ര ഉയർന്നാൽ മാത്രമേ വിള്ളൽ ആരംഭിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ സ്ഥലത്തെ വിള്ളൽ വളർച്ച ഞാൻ കാണിക്കുകയും നിങ്ങൾ ഇവിടെ ഊർജ്ജ ലഭ്യത കാണുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഇവ രണ്ടും കാണണം അപ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ സംഭവിക്കുന്നത് നിശ്ചലമായ വിള്ളൽ വളരാൻ തുടങ്ങുന്നു അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് വിള്ളൽ തുടക്കത്തിൽ നിശ്ചലമായിരുന്നു സമ്മർദ്ദം സിഗ്മ C ആയി വർദ്ധിപ്പിക്കുന്നതുവരെ വിള്ളൽ ആരംഭിക്കില്ല ഈ ഗ്രാഫ് പോയി ഈ ഗ്രാഫിൽ മുട്ടും ഇത് 2R ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ നിങ്ങൾ എന്താണ് കണ്ടെത്തുന്നത് 2R എന്നതിനപ്പുറം വിള്ളൽ ശാഖകൾ അഴിച്ചുമാറ്റിയതായി നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് രണ്ട് ശാഖകളുണ്ട് ഓരോ ബ്രാഞ്ചും ഒരു പ്രതിരോധം നൽകുന്നു നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അത് വളരെ ലളിതമാണ് ഗതികോർജ്ജത്തിന്റെ പങ്ക് നമ്മൾ പരിഗണിക്കുന്നില്ല അത് ശരിയാണ് എന്തുകൊണ്ടാണ് വിള്ളൽ ബ്രാഞ്ചിംഗ് സാധ്യമാകുന്നതെന്ന് ഒരു ആശയപരമായ വിലമതിപ്പ് ഇത് നൽകുന്നു നമ്മൾ ഇതിനകം നോക്കിയ ആശയങ്ങളിൽ നിന്ന് ഇത് എങ്ങനെ വിശദീകരിക്കാനാകും ഇത് ആദ്യ ഏകദേശമാണ് വിള്ളൽ ബ്രാഞ്ചിംഗ് നടക്കുമെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ ഇത് മതിയായതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ഊർജ്ജം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വിള്ളൽ വളരുന്നു അതിനാൽ അതിനപ്പുറം മൂന്ന് വിള്ളലുകൾ വളരുന്നതായി നിങ്ങൾ കാണുന്നു പൈ സിഗ്മ C സ്ക്വയർ a C കൂട്ടണം ഡെൽറ്റ a ഹരിക്കണം E ആണ് നിങ്ങൾക്ക് ഉള്ളത് അതിനാൽ ഇത് നിങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നു എന്തുകൊണ്ടാണ് ക്രാക്ക് ബ്രാഞ്ചിംഗ് സാധ്യമാകുന്നത് അതിനാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ആനിമേഷൻ വീണ്ടും ഇടുക എന്നതാണ് നിങ്ങൾ നിരീക്ഷിക്കുക ആനിമേഷൻ ചിത്രീകരണമാണ് ഊർജ്ജ ലഭ്യത എന്താണ് എന്താണ് പ്രതിരോധം എന്ന് നിങ്ങൾ നോക്കുന്നു സമാന്തരമായി വിള്ളൽ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക അത് സ്കീമാറ്റിക് ആണ് ക്രാക്ക് ബ്രാഞ്ചിംഗ് വിശദീകരിക്കുന്നതിനുള്ള ആദ്യ ഓർഡർ ഏകദേശമായി നിങ്ങൾ ഇത് എടുക്കണമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഒരു ഗുരുതരമായ സമ്മർദ്ദത്തിൽ എത്തുന്നതുവരെ വിള്ളൽ ആരംഭിക്കില്ല ഊർജ്ജ നിലകൾ വേണ്ടത്ര ഉയർന്നാൽ അത് ശാഖകളാകും കൂടുതൽ ഊർജ്ജം പമ്പ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ശാഖകളാക്കുകയും നിങ്ങളെ മനസിലാക്കുകയും ചെയ്യും ഒരു ചെറിയ വിള്ളലുമായി ഞാൻ ശരിക്കും അനന്തമായ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ പരിഗണിക്കണം വിള്ളൽ അതിന്റെ മറ്റേ അറ്റം കണ്ടില്ല ഈ സംഭവിക്കുന്നതെല്ലാം ഒരു സാങ്കൽപ്പിക പരീക്ഷണമാണ് പക്ഷേ ഊർജ്ജ പ്രകാശന നിരക്കിന്റെയും പ്രതിരോധത്തിന്റെയും അടിസ്ഥാനത്തിൽ ക്രാക്ക് ബ്രാഞ്ചിംഗ് വിശദീകരിക്കാമെന്ന ന്യായമായ വിലമതിപ്പ് നിങ്ങൾക്ക് നൽകുന്നു ഗ്രിഫിത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഇർവിൻ ഓറോവൻ ഡക്റ്റൈൽ സോളിഡുകളിലേക്കുള്ള വിപുലീകരണം ഇനി ഇർവിന്റെയും ഒറോവന്റെയും സംഭാവന എന്തായിരുന്നുവെന്ന് നോക്കാം ഫ്രാക്ചർ മെക്കാനിക്സ് സമൂഹത്തിന് ഉപയോഗപ്രദമായിരിക്കണം ഡക്റ്റൈൽ മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച നിരവധി ഘടനകൾ നമുക്കുണ്ട് ഡക്റ്റൈൽ മെറ്റീരിയലുകളിലേക്ക് വികസിപ്പിച്ച ആശയങ്ങൾ ഞാൻ വിപുലീകരിച്ചില്ലെങ്കിൽ ഫ്രാക്ചർ മെക്കാനിക്സ് ഉപയോഗപ്രദമാകില്ല ഇർവിനും ഒറോവാനും ഇത് ചെയ്തു അവർ ഗ്രിഫിത്തിന്റെ വിശകലനം വിപുലീകരിച്ചു എന്താണ് വ്യത്യാസം പൊട്ടുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ മുന്നേറുന്ന വിള്ളലുകൾക്ക് ഉപരിതല ഊർജ്ജത്തിന്റെ ക്രമത്തിന്റെ ചെറിയ ഊർജ്ജം ആവശ്യമാണ് അതിനാൽ ഒരു വിള്ളൽ ആരംഭിച്ചുകഴിഞ്ഞാൽ അത് ദുരന്തത്തിലേക്ക് നയിക്കുന്നു പൊട്ടുന്ന വസ്തുക്കൾ പെരുമാറുന്ന രീതി ഇങ്ങനെയല്ല പൊട്ടുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു പ്രധാന അനുമാനം കാണുക R സ്ഥിരമായി തുടരുന്നു മുമ്പത്തെ ക്ലാസുകളിലൊന്നിൽ ഉപരിതല ഊർജ്ജത്തിന്റെ മൂല്യം എന്താണ് പ്ലാസ്റ്റിക് രൂപഭേദം മൂലം ഊർജ്ജത്തിന്റെ മൂല്യം എന്താണ് എന്ന് നമ്മൾ ഇതിനകം പരിശോധിച്ചു ഉപരിതല ഊർജ്ജത്തേക്കാൾ വലിയ അളവിലുള്ള നിരവധി ഓർഡറുകൾ അതായിരുന്നു അതിനാൽ അതാണ് ഇവിടെ പരാമർശിച്ചത് അതിനാൽ മിക്ക എഞ്ചിനീയറിംഗ് വസ്തുക്കളിലും ഒരു വിള്ളൽ വളരാൻ ഉപരിതല ഊർജ്ജത്തേക്കാൾ വളരെ വലിയ ഊർജ്ജം ആവശ്യമാണ് ഇത് ഒരു വശമാണ് മറ്റൊരു വശം അത് സ്ഥിരമായി നിലനിൽക്കുന്നില്ല പ്രതിരോധം സ്ഥിരമായി നിലനിൽക്കുന്നില്ല ആളുകൾ ചോദ്യം ചെയ്തത് ഇപ്പോൾ നമുക്ക് ഫ്രാക്ചർ മെക്കാനിക്സ് അറിയാം അതിനാൽ പ്ലാസ്റ്റിക് രൂപഭേദം മൂലം ഊർജ്ജമുണ്ടെന്ന് പറയാൻ ഞാൻ നേരിട്ട് ചാടുന്നു ആ ദിശയിൽ ചിന്തിക്കുമ്പോൾ സോളിഡുകളുടെ ഉപരിതല ഊർജ്ജത്തിനുപുറമെ മറ്റ് ചില സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വലിയ അളവിൽ ഊർജ്ജം ഉൾപ്പെടുന്നു ഡക്റ്റൈൽ മെറ്റീരിയലുകളുടെ കാര്യത്തിൽ ഈ ശാരീരിക പ്രതിഭാസങ്ങൾ എന്താണ് പ്ലാസ്റ്റിക് വികലമാണ് നിങ്ങൾ പ്ലാസ്റ്റിക് രൂപഭേദം വരുത്തുന്ന നിമിഷം എന്ത് സംഭവിക്കും അത് മാറ്റാനാവില്ല ഊർജ്ജം നഷ്ടപ്പെടുന്നു ഇത് ഒരു റിവേർസിബിൾ സിസ്റ്റം പോലെയല്ല ഗ്രിഫിത്ത് സിദ്ധാന്തം മുഴുവനായും സിസ്റ്റം പഴയപടിയാക്കാമെന്ന ധാരണയെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഊർജ്ജ ബാലൻസ് വികസിപ്പിച്ചു അതിനാൽ ഇപ്പോൾ ഡക്റ്റൈൽ സോളിഡുകളിൽ ഫ്രാക്ചർ മെക്കാനിക്സ് പ്രയോഗിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് ഘട്ടം നടത്തേണ്ടതുണ്ട് വളരെ ലളിതമായ പരിഷ്ക്കരണത്തിലൂടെയാണ് ഇത് ചെയ്തത് അവരുടെ പരിഷ്ക്കരണത്തെ ന്യായീകരിക്കുന്നതിനിടയിൽ അവർ വീണ്ടും ഇംഗ്ലിസിന്റെ സംഭാവന നൽകുന്നു ക്രാക്ക് ടിപ്പുകളിലെ സമ്മർദ്ദങ്ങൾ വളരെ വലുതാണെന്ന് ഇംഗ്ലിസ് കാണിച്ചു അവ വളരെ വലുതാണ് അവ വിള്ളൽ ടിപ്പിന് മുന്നിൽ അനലാസ്റ്റിക് വികലത്തിന് കാരണമാകുന്നു നോക്കൂ പ്രസ്താവന വികസിപ്പിച്ച സമയത്തെ സന്ദർഭത്തിൽ നിന്ന് നിങ്ങൾ നോക്കണം പ്രായോഗികമായി പൊട്ടുന്ന രീതിയിൽ ഡക്റ്റൈൽ ഘടനകൾ പരാജയപ്പെടുന്നതായി ആളുകൾ കണ്ടെത്തി അതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതെ വിള്ളൽ ടിപ്പിന് സമീപം പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുന്നു അതേസമയം മൊത്തത്തിലുള്ള ഘടന ഇപ്പോഴും ഇലാസ്റ്റിക് അവസ്ഥയിലാണ് അതിനാൽ അത് ബോധ്യപ്പെടുത്തുന്നതിന് അവർ ഇംഗ്ലിസിന്റെ വിശകലനം കൊണ്ടുവരേണ്ടതുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിൽ അനലാസ്റ്റിക് വികലമുണ്ടാകുമെന്ന് കാണിക്കുക ഞാൻ സൂചിപ്പിച്ചതുപോലെ അനലാസ്റ്റിക് രൂപഭേദം മാറ്റാനാവാത്തതാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു അതിനാൽ സമ്മർദ്ദങ്ങൾ പുറത്തുവിടുമ്പോൾ ക്രാക്ക് ടിപ്പിന് സമീപം ശരീരം അതിന്റെ യഥാർത്ഥ ക്രമീകരണം കൈവരിക്കില്ല എന്ത് സംഭവിക്കും അനലാസ്റ്റിക് സ്വഭാവത്തിന് കാരണമാകുന്ന ഊർജ്ജം ഒടുവിൽ താപ ഊർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചുറ്റുപാടുകൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു അത് ശരിയാണ് ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടല്ല ഇർവിൻ നിർദ്ദേശിച്ചത് എന്താണ് അദ്ദേഹം ലളിതമായി പറഞ്ഞു എന്തായാലും ഈ സ്ലൈഡിൽ കാണില്ല എന്തായാലും മറ്റ് വശങ്ങൾ എന്താണെന്ന് ഞാൻ കണ്ടെത്തും അതിനാൽ ലോഹങ്ങളുടെ കാര്യത്തിൽ വിള്ളൽ ടിപ്പിന് സമീപമുള്ള പ്ലാസ്റ്റിക് രൂപഭേദം പ്രധാനമായും ചലനവും ഉത്പാദന സ്ഥാനചലനവും ഗ്രയിനുകളുടെ കറക്കവും ഗ്രയിനുകളുടെ അതിരുകളും തുളകളുടെ രൂപീകരണം എന്നിവയാണ് മെറ്റീരിയൽ കുറഞ്ഞ വിളവ് സമ്മർദ്ദമാണെങ്കിൽ പ്ലാസ്റ്റിക് സോണിന്റെ വലുപ്പം വലുതാണ് ഒരു വലിയ പ്ലാസ്റ്റിക് സോൺ എന്നാൽ ഒരു വിള്ളൽ നുറുങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ അളവിൽ ഊർജ്ജം ആവശ്യമാണ് അതിനാൽ ഇവയെല്ലാം വീണ്ടും ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രീതിശാസ്ത്രം രൂപപ്പെടുത്തുന്നതിന് പ്ലാസ്റ്റിക് രൂപഭേദം വരുത്തുന്നതിന് വലിയ മൂല്യമുണ്ടെന്ന് അവർ സ്വയം ബോധ്യപ്പെടുത്തണം കൂടാതെ ഗ്രിഫിത്തിന്റെ വിശകലനത്തിൽ അദ്ദേഹം വളരെ ലളിതമായ ഒരു മാറ്റം വരുത്തി ഇത് വളരെ ബുദ്ധിപരമായ നടപടിയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അദ്ദേഹം ചെയ്തത് ഗാമാ s എഴുതുന്നതിനുപകരം ഗാമ s ന്റെയും ഗാമ p യുടെയും ആകെത്തുക എടുത്തു ഊർജ്ജ പ്രകാശന നിരക്ക് എന്ന് നിങ്ങൾ ചർച്ച ചെയ്തതെല്ലാം നമ്മൾ തുടർന്നും ഉപയോഗിക്കും തീർത്തും പ്രശ്നമില്ല എന്നാൽ പ്രതിരോധ സ്വഭാവം വ്യത്യസ്തമാണ് വിള്ളൽ മുന്നേറുന്നതിനനുസരിച്ച് മാറുന്ന പ്രതിരോധ സ്വഭാവമാണ് മാത്രവുമല്ല വിള്ളലിന് തുടക്കമിടാൻ പോലും നിങ്ങൾക്ക് വലിയ ഊർജ്ജം ആവശ്യമാണ് നിങ്ങൾ ഇത് യഥാർത്ഥ പരീക്ഷണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ആകർഷിക്കുന്നു ഡക്റ്റൈൽ മെറ്റീരിയലുകളുടെ കാര്യത്തിൽ വിള്ളൽ വളരുന്നതിന് ആവശ്യമായ സമ്മർദ്ദങ്ങൾ നിങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ ചെറുത്തുനിൽപ്പ് എന്ന ആശയം അദ്ദേഹം ശരിക്കും മാറ്റിമറിച്ചു ചെറുത്തുനിൽപ്പ് അദ്ദേഹം അതിനെ ഗാമ s പ്ലസ് ഗാമ p എന്ന് പരിഷ്കരിച്ചു തലം സമ്മർദ്ദത്തിൽ ആർ കർവ് ഒരു ഗ്രാഫിൽ പ്രതിരോധം എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ ഒരു പ്ലെയിൻ സ്ട്രെസ് കേസും പ്ലെയിൻ സ്ട്രെയിൻ കേസും പ്രത്യേകം തരംതിരിക്കേണ്ടിവരും പൊട്ടുന്ന മെറ്റീരിയലിനായി നമ്മൾ വരച്ച സമാനമായ ഗ്രാഫ് ഇതാണ് X അക്ഷത്തിൽ ഡെൽറ്റ a വർദ്ധിച്ച വിള്ളൽ വളർച്ച നെഗറ്റീവ് x അക്ഷത്തിൽ പ്രാരംഭ വിള്ളൽ ഇടുക Y അക്ഷത്തിൽ നിങ്ങൾക്ക് ഊർജ്ജമുണ്ട് പ്രതിരോധം ഏത് രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നു ഉയർന്ന ശക്തിയുള്ള ഡക്റ്റൈൽ മെറ്റീരിയലുകളുടെ കാര്യത്തിൽ വിള്ളൽ വളർച്ചയ്ക്കുള്ള പ്രതിരോധം സ്ഥിരമായി നിലനിൽക്കില്ല പക്ഷേ വിള്ളൽ വളരുന്തോറും വർദ്ധിക്കുന്നു എന്നാൽ ഒരു പ്ലെയിൻ സ്ട്രെയിൻ കേസിന്റെ കാര്യത്തിൽ ഈ വർദ്ധനവ് വളരെ ചെറുതാണ് നമ്മൾ ചിത്രം പൂർത്തിയാക്കും നിങ്ങൾ പ്ലെയിൻ സ്ട്രെസ് കേസ് തിരയുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രം കാണും ഞാൻ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് തല സമ്മർദ്ദ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ആളുകൾ സ്ഥിരമായ ഒടിവും തുടർന്ന് അസ്ഥിരമായ ഒടിവും നിരീക്ഷിച്ചു അതിനാൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായ R ൽ നിന്ന് വേരിയബിൾ R ലേക്ക് നീങ്ങുന്നു ആളുകൾ ഇതിനെ R കർവ് എന്ന് വിളിക്കുന്നു കൂടാതെ ആളുകൾ വിവിധ മെറ്റീരിയലുകൾക്കായി R കർവ് സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണ രീതിശാസ്ത്രവും ഉപയോഗിക്കുന്നു ഇപ്പോൾ ആർ കർവ് ആശയം ഉപയോഗിച്ച് സ്ഥിരമായ ഒടിവിന്റെ പ്രതിഭാസം വിശദീകരിക്കാൻ നമുക്ക് കഴിയും എനിക്ക് അത് വിശദീകരിക്കാനും നിങ്ങൾക്ക് ബോധ്യപ്പെടാനും കഴിയുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയായ ദിശയിലാണ് നോക്കൂ വളരെയധികം ഗണിതശാസ്ത്രത്തിലേക്ക് കടക്കാതെ ഫ്രാക്ചർ മെക്കാനിക്സിലെ ചില പ്രധാന ആശയങ്ങൾ മനസിലാക്കാൻ നമുക്ക് കഴിയുന്നു ഇപ്പോൾ നമുക്ക് മീഡിയ വഴി ഒരു മാർഗമുണ്ട് ഒരു പ്ലെയിൻ സ്ട്രെയിൻ കേസിന്റെ കാര്യത്തിൽ R കർവ് ഇത് പോലെ കാണപ്പെടുന്നു ഒരു തല സമ്മർദ്ദ കേസിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെ കാണപ്പെടും തലം സമ്മർദ്ദത്തിൽ ആർ കർവ് പ്രതിരോധത്തിന്റെ വർദ്ധനവ് വളരെ കുത്തനെയുള്ളതാണ് വീണ്ടും കാണുക ഇവയെല്ലാം സ്കീമാറ്റിക് കണക്കുകളാണ് ഇവ സ്കെയിലിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ആകൃതിയുണ്ട് R അതിവേഗം വർദ്ധിക്കുന്നു ഇതിന്റെ ഒരു രേഖാചിത്രം നിങ്ങൾ തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സിഗ്മ 1 ന്റെ മൂല്യം എന്താണ് ജിഐയുടെ മൂല്യം എന്താണ് എന്നും നമ്മൾ നോക്കുന്നു ഗ്രാഫ് ഇതുപോലെയാണ് ഈ ഗ്രാഫ് നോക്കുന്നതിലൂടെ ഒടിവുകൾക്ക് ആവശ്യമായതും മതിയായതുമായ അവസ്ഥകളെ നിങ്ങൾ ശരിക്കും വിലമതിക്കും നമ്മൾ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ അത് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ഒരു R കർവ് നോക്കുമ്പോൾ ഇതുപോലുള്ള എല്ലാ വിശദീകരണങ്ങളും നൽകുന്നു നമ്മൾ ഈ ഗ്രാഫിൽ കുറച്ച് സമയം ചെലവഴിക്കുകയും അത് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് മനസിലാക്കുകയും ചെയ്യും ആനിമേഷൻ നോക്കൂ ഞാൻ സമ്മർദ്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സിഗ്മ 1 സിഗ്മ 2 ൽ എത്തുമ്പോൾ അനുബന്ധ ഊർജ്ജ പ്രകാശന നിരക്ക് G2 ആണെങ്കിൽ ഒടിവ് സിഗ്മ 2 ൽ ആരംഭിക്കുന്നു പൊട്ടുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു വിള്ളൽ ആരംഭിച്ചുകഴിഞ്ഞാൽ അത് പ്രചാരണം തുടരും പ്ലെയിൻ സ്ട്രെയിൻ കേസിന്റെ കാര്യത്തിലും കൂടുതലോ കുറവോ R വക്രം ആഴമില്ലാത്തതാണ് അവിടെ വീണ്ടും വിള്ളൽ പ്രചരണം വളരെ ലളിതമാണ് നിങ്ങൾ തല സമ്മർദ്ദ കേസിലേക്ക് വരുന്ന നിമിഷം R കർവ് കൂടുതൽ കുത്തനെയുള്ളതാണ് നിങ്ങൾക്ക് R ന് തുല്യമായ ഊർജ്ജ പ്രകാശന നിരക്ക് ഇവിടെയുണ്ട് അതുകൊള്ളാം ഞാൻ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ വീണ്ടും ഊർജ്ജ റിലീസ് നിരക്ക് R ന് തുല്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ ഈ സ്ഥാനത്ത് നിന്ന് ഈ സ്ഥാനത്തേക്ക് വർദ്ധിച്ചുവരുന്ന വിള്ളൽ വളർച്ച നോക്കുകയാണെങ്കിൽ അത് ഒടിവാണ് പക്ഷേ ഒടിവ് സ്ഥിരമാണ് അതിനർത്ഥം ഞാൻ ലോഡ് നീക്കംചെയ്യുകയാണെങ്കിൽ വിള്ളൽ വളരുകയും നിർത്തുകയും ചെയ്യുമായിരുന്നു അതിനപ്പുറം അത് പുരോഗമിക്കുകയില്ലായിരുന്നു ഞാൻ ലോഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിള്ളലും വർദ്ധിക്കും വിള്ളൽ ഒരു വിനാശകരമായ പരാജയമായി മാറില്ല ഒരു ഘട്ടം വരെ ഇത് ക്രമാതീതമായി വളരും ഞാൻ ഇത് ഒരു തവിട്ട് വരയായി കാണിക്കുമ്പോൾ സിഗ്മ c Gc എന്നിവ കാണിക്കുന്നിടത്ത് വളവ് R കർവിന് സ്പഷ്ടമാണ് അതിനാൽ ഇത് എന്താണ് കാണിക്കുന്നത് ഈ ഘട്ടത്തിൽ R ന് തുല്യമായ G സംതൃപ്തമാണ് എന്നാൽ ഈ പോയിന്റിനപ്പുറം നിങ്ങൾ കണ്ടെത്തും കാരണം കർവ് സ്പഷ്ടമാണ് ഊർജ്ജ ലഭ്യത പ്രതിരോധത്തെക്കാൾ വളരെ കൂടുതലാണ് അതിനാൽ തലം സമ്മർദ്ദാവസ്ഥയുടെ കാര്യത്തിൽ അസ്ഥിരമായ വിള്ളലിന്റെ വളർച്ചയും അസ്ഥിരമായ വിള്ളൽ വളർച്ചയും ഇത് വിശദീകരിക്കുന്നു അതിനാൽ നമ്മൾ ശരിയായ പാതയിലാണെന്ന് ഇതിനർത്ഥം ഗാമ s നെ ഗാമ s കൂട്ടണം ഗാമ p യിലേക്ക് മാറ്റുന്നതിനുള്ള ലളിതമായ ഒരു ഘട്ടം മാത്രമാണ് ഇർവിൻ ചെയ്തത് പ്രാദേശിക പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഗാമ p ന്യായീകരിച്ചു അദ്ദേഹം വികസിപ്പിച്ച സമയത്ത് നിങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം ഘടന മൊത്തത്തിൽ ഇലാസ്റ്റിക് ആയി തുടർന്നു പക്ഷേ വിള്ളലിന് സമീപം മാത്രം അയാൾക്ക് ബോധ്യപ്പെടുത്തേണ്ട പ്ലാസ്റ്റിക് രൂപഭേദം നിങ്ങൾക്ക് ഉണ്ടാകും അത് ചെയ്തുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പ്രതിഭാസങ്ങൾക്ക് വിശദീകരണങ്ങൾ നൽകിയ R കർവ് എന്ന ആശയം വികസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തി അതിനാൽ ഈ ഗ്രാഫിൽ നോക്കൂ എനിക്ക് രണ്ട് ഘട്ടങ്ങളുള്ള ഒരു യഥാർത്ഥ ക്രാക്ക് a1 ഉണ്ട് ഡെൽറ്റ a1 എന്ന സ്ഥിരമായ വിള്ളൽ വളർച്ചാ ഘട്ടമുണ്ട് അതിനർത്ഥം സിഗ്മ 2 ൽ നിന്ന് സിഗ്മ 3 ലേക്ക് സിഗ്മ c യിലേക്ക് ഞാൻ സിഗ്മ c യിൽ എത്തുന്നതുവരെ വിള്ളൽ ദുരന്തമായി മാറില്ല എന്നാൽ യഥാർത്ഥ പ്രയോഗത്തിൽ നിങ്ങൾക്കറിയാം സ്ഥിരതയുള്ള ഒടിവ് ഉടനടി അസ്ഥിരമായ ഒടിവുണ്ടാകും ഇത് ഒരു വിള്ളൽ വളർച്ചാ സംവിധാനം പോലെയാണെന്ന് കരുതരുത് ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഒടിവ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഒരു വിശദീകരണം നൽകാൻ ശ്രമിക്കുകയാണ് ഒടിവ് സാധ്യമാണ് സ്ഥിരമായ ഒടിവ് സാധ്യമാണ് നിങ്ങളുടെ R കർവ് ആശയം നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എനിക്ക് ഇവിടെയുള്ളത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് നിങ്ങൾ പറയുമ്പോൾ സിഗ്മ c യിൽ ഒടിവുണ്ടാകുമ്പോൾ അനുബന്ധ ക്രിട്ടിക്കൽ ക്രാക്ക് നീളം എന്താണ് ഇത് a1 അല്ലെങ്കിൽ a1 കൂട്ടണം ഡെൽറ്റ a1 ആണോ ആളുകൾ a1 കൂട്ടണം ഡെൽറ്റ a1 ലേക്ക് പോകും അതു തെറ്റാണ് എനിക്ക് സിഗ്മ c ഉണ്ടെങ്കിൽ a1 നീളമുള്ള വിള്ളൽ ശരിക്കും അസ്ഥിരമാകും ഡെൽറ്റ a1 പോലും നിങ്ങൾ ശ്രദ്ധിക്കില്ല ഫ്രാക്ചർ മെക്കാനിക്സിലെ പ്രശ്നങ്ങളിലൊന്നാണ് ഇത് അവർ തുടക്കത്തിൽ വിഷയം വികസിപ്പിച്ചെടുക്കുമ്പോൾ തെറ്റായ നീളം റിപ്പോർട്ടുചെയ്യുകയായിരുന്നു എനിക്ക് സ്ഥിരമായ ഒടിവുണ്ടാകുമ്പോൾ പ്രാരംഭ വിള്ളൽ എന്താണെന്ന് എനിക്ക് അറിയേണ്ടി വരും അതിനാൽ നമ്മൾ ചെയ്യുന്നത് അടുത്ത ക്ലാസിൽ ഈ ആശയങ്ങൾ കൂടുതൽ വികസിപ്പിക്കും എന്നതാണ് ഞാൻ അതിലേക്ക് പോകുന്നതിനുമുമ്പ് ഒരു അസൈൻമെന്റ് പ്രശ്നം നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് അടുത്ത ക്ലാസിലേക്ക് ഒരു മാതൃകയായി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ശരിക്കും വ്യക്തമാക്കുമെന്ന് നിങ്ങൾക്കറിയാം എനിക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് വിഷമിക്കേണ്ടത് ഏത് വിള്ളലാണ് എനിക്ക് വിഷമിക്കേണ്ടത് ഇത് വളരെ രസകരമായ ഒരു പരീക്ഷണമാണ് നിങ്ങൾ എന്തുചെയ്യും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പരീക്ഷണം നടത്തും ഞാൻ ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വികസിപ്പിച്ച ശേഷം സമ്മർദ്ദ തീവ്രത ഘടകം കണക്കാക്കാനും സ്വയം ബോധ്യപ്പെടുത്താനും നിങ്ങൾക്കാകും ഏത് വിള്ളൽ കൂടുതൽ അപകടകരമാണെന്ന് മനസിലാക്കുന്നതിന് ഈ പരീക്ഷണം തീർച്ചയായും സഹായകരമായിരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിശകലനത്തിനും ഒരു വിള്ളൽ മാത്രം പരിഗണിക്കുന്നത് ഇത് എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുന്നത് നമ്മൾ പ്രശ്നം നോക്കും ക്ലാസ് പരീക്ഷണത്തിനായുള്ള മാതൃക സവിശേഷത ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ എനിക്ക് പ്രശ്നമുണ്ട് ഇത് നിങ്ങളുടെ അസൈൻമെന്റ് ഷീറ്റിൽ നിന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ ഒരു കുറിപ്പ് എടുക്കുക ഈ ചിത്രത്തിന് 18 മില്ലിമീറ്റർ സെൻട്രൽ ക്രാക്കും 8 5 മില്ലിമീറ്ററിന്റെ എഡ്ജ് ക്രാക്കും ഇവിടെ 8 5 മില്ലിമീറ്ററിന്റെ മറ്റൊരു എഡ്ജ് ക്രാക്ക് ഉണ്ട് പ്ലേറ്റ് വീതി 50 മില്ലിമീറ്ററാണ് അതിനാൽ ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് ഈ മാതൃക ഉണ്ടാക്കുക അടുത്ത ക്ലാസിൽ ഈ മാതൃകയുമായി വരിക നോക്കൂ നിങ്ങൾ ഈ അളവുകൾ നോക്കുകയാണെങ്കിൽ ഈ അളവുകൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കുന്നതിനാൽ വിള്ളലുകൾ വളരെ അകലെയാണ് ഇത് മാത്രമല്ല അവ ലോഡിംഗ് പോയിന്റുകളിൽ നിന്നും അകലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു അവസാന ലൂപ്പ് നൽകേണ്ടതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു വൃത്താകാരമുള്ള പെൻസിൽ ചേർക്കാൻ കഴിയും നിങ്ങൾ അത് കൈകൊണ്ട് ചെയ്യാൻ പോകുന്നു അതിനാൽ നിങ്ങൾ കൈകൊണ്ട് പരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ പരമാവധി നിലനിർത്താൻ ശ്രമിക്കും മാതൃകയിൽ ഏകീകൃത സമ്മർദ്ദമുണ്ട് അതിനാൽ നിങ്ങളുടെ ഫലങ്ങൾ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകീകൃത സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്തതിനാലാകാം ഇത് അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മൂന്ന് മാതൃകകൾ വീതം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ഒരു പരീക്ഷണം നടത്തുമ്പോഴെല്ലാം കുറഞ്ഞത് മൂന്ന് സാമ്പിളുകളെങ്കിലും ഉണ്ടാക്കണം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഞാൻ 8 5 മില്ലിമീറ്റർ നീളമുള്ള ഒരു വിള്ളൽ കാണിച്ചിരിക്കുന്നു ഇരുവശത്തും 9 മില്ലിമീറ്ററുള്ള മറ്റൊരു മാതൃക നിങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇരുവശത്തും 9 5 മില്ലിമീറ്ററുള്ള മറ്റൊരു മാതൃക അതിനാൽ നിങ്ങൾക്ക് മൂന്ന് വ്യത്യസ്ത മാതൃകകൾ ഉണ്ടാകും അവയിൽ ഓരോന്നിനും നിങ്ങൾ മൂന്ന് സാമ്പിളുകൾ നൽകുന്നു നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒരു നീണ്ട കടലാസ് എടുക്കും ഒരു ലൂപ്പ് ശരിയായി ഒട്ടിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു വൃത്താകാരമുള്ള പെൻസിലും ഇവിടെയും ഒരു വൃത്താകാരമുള്ള പെൻസിലും ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുക ക്ലാസിലെ ആ മാതൃക നമ്മൾ തീർച്ചയായും തകർക്കും ഞാൻ കാണിച്ച വിള്ളലുകളിൽ നിന്ന് കണ്ടെത്തുക ഏത് വിള്ളലാണ് ഞാൻ വിഷമിക്കേണ്ടത് ഫ്രാക്ചർ മെക്കാനിക്സിലെ അടിസ്ഥാന കാര്യങ്ങളിലൊന്ന് കാരണം അന്തർലീനമായ കുറവുകളുടെ സാന്നിധ്യം നമ്മൾ പരിഗണിക്കുന്നു അന്തർലീനമായ ന്യൂനത നിങ്ങൾ പറയുമ്പോൾ ധാരാളം ഉണ്ടാവാം പക്ഷേ നമ്മുടെ എല്ലാ സൈദ്ധാന്തിക വികാസത്തിനും നമ്മൾ ഒരു വിള്ളൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയാൽ നമുക്ക് ഒരു ധാരണ ലഭിക്കും